കമ്പ്യൂട്ടർ ഗ്രാഫിക്സിന്റെ അവലോകനം IV ഹലോ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സിലേക്ക് സ്വാഗതം മുമ്പത്തെ ക്ലാസുകളിൽ നമ്മൾ മാനുവൽ ഡ്രോയിംഗ് നോക്കിയിട്ടുണ്ട് തുടർന്ന് സർഫസ് മോഡലിംഗിനെക്കുറിച്ച് പരിചയപ്പെടുത്താൻ ശ്രമിച്ചു ഇപ്പോൾ നമ്മൾ പ്രധാനമായും സോളിഡ് വർക്ക്സ് എന്ന് പേരുള്ള സോഫ്റ്റ്വെയർ അവതരിപ്പിക്കാൻ പോകുന്നു ഉൽപ്പാദന മേഖലയിലെ വളരെ പ്രചാരമുള്ള സോഫ്റ്റ്വെയറാണ് ഇത് ഈ സോഫ്റ്റ്വെയർ ഉപയോഗത്തെക്കുറിച്ചും കുറച്ച് ധാരണയുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കും അതിനാൽ ഏതൊരു സോഫ്റ്റ്വെയറിലും കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് നമ്മൾ വിളിക്കുന്ന തരത്തിലുള്ള പ്രോസസ് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾ രൂപകൽപ്പന ചെയ്യുന്നതിന് കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും ഡ്രാഫ്റ്റുചെയ്യുന്നതിനും നമ്മൾ അത് ഉപയോഗിക്കുന്നു നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ ക്യാഡ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നു ഈ കമ്പ്യൂട്ടർ എയ്ഡഡ് രൂപകൽപ്പനയിൽ ഒന്ന് ഡ്രാഫ്റ്റിംഗും രണ്ടാമത്തേത് ഡിസൈനിംഗും ഉൾപ്പെടുന്നു ഡ്രാഫ്റ്റിംഗും ഡിസൈനിംഗും തമ്മിലുള്ള പ്രധാന വ്യത്യാസംനിങ്ങൾ കൊണ്ടുവരുന്ന സ്കെച്ച് അതേപടി ഉപയോഗിക്കാം എന്നാൽ നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ നിർമ്മാണ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷേ മെറ്റീരിയലുകളുടെ കരുത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കുന്നു തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഈ കാര്യങ്ങൾ മാറ്റേണ്ടി വന്നേക്കാം അതിനാൽ സാധാരണയായി ഈ ഡ്രാഫ്റ്റിംഗ് എല്ലായ്പ്പോഴും ഡിസൈനിംഗുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഈ ക്യാഡ് സോഫ്റ്റ്വെയറിൽ ഭൂരിഭാഗവും രണ്ടും ചെയ്യുന്നു മെക്കാനിക്കൽ ഒബ്ജക്റ്റുകൾ പോലുള്ള വ്യാവസായിക വസ്തുക്കൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് ക്യാഡ് സോഫ്റ്റ്വെയർ മാത്രമല്ല അവ കലാപരമായ കാഴ്ചകളെ പ്രതിനിധീകരിക്കും രണ്ടും ഏത് ക്യാഡ് സോഫ്റ്റ്വെയറിനും സാധ്യമാണ് ഫിലിം ആനിമേഷനുകൾക്കും വീഡിയോ ഗെയിമുകൾക്കുമായി പോലും ഈ ദിവസങ്ങളിൽ ആളുകൾ ക്യാഡ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു പ്രത്യേകിച്ചും ഉൽപാദന മേഖലയിലെ 3 ഡി പ്രിന്റിംഗ് ഒരു ജനപ്രിയ മന്ത്രമാണ് കൂടാതെ ഈ 3 ഡി മെറ്റീരിയലുകൾ തയ്യാറാക്കുന്നതിന് ക്യാഡ് സോഫ്റ്റ്വെയർ വളരെയധികം സഹായിക്കുന്നു എന്റെ അനുഭവത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ഈ സോഫ്റ്റ്വെയറിനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുന്നു ഒന്ന് സൌജന്യമായി ലഭ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഭാഗികമായ തുക നൽകുകയും മറ്റൊന്ന് പണമടച്ചുള്ള സോഫ്റ്റ്വെയർ ഓരോന്നിനും അതിന്റെ ഗുണങ്ങളുണ്ട് ഉദാഹരണം സൌജന്യ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പണമടയ്ക്കേണ്ടതില്ല നിങ്ങൾക്ക് ഇത് പരിശീലിക്കാൻ കഴിയും ലളിതമായ സ്കെച്ചുകൾ നിർമ്മിക്കാം അവ വളരെ ലളിതമായ കാര്യങ്ങളായിരിക്കാം അവയ്ക്ക് വളരെ വലിയ വസ്തുക്കൾ പറ്റണമെന്നില്ല അവ മറ്റ് കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നില്ലായിരിക്കാം കൂടാതെ നിരവധി ഓപ്ഷനുകൾ നഷ്ടമായിരിക്കാം എന്നാലുംതുടങ്ങാൻ നല്ല ഒരു രീതിയാണ് അതിനായി ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ടിങ്കർക്യാഡ് അല്ലെങ്കിൽ ഫ്രീക്യാഡ് ബ്ലോക്കുകൾ ഫ്യൂഷൻ 360 ഡിഗ്രി ഓപ്പൺസ്കാഡ് എന്നിവ നമ്മൾ തരംതിരിക്കുന്നു സൌജന്യമായി ലഭ്യമായ സോഫ്റ്റ്വെയർ ഇവയാണ് മറ്റ് ഇനങ്ങളും ഉണ്ട് മെറ്റീരിയൽ തയ്യാറാക്കുന്നതിലും രൂപകൽപ്പന ചെയ്യുന്നതിലും ഒന്നിലധികം ഗുണങ്ങളുള്ളതിനാൽ വ്യവസായം പ്രധാനമായും പണമടച്ചുള്ള പാക്കേജുകളുമായി പോകുന്നു ജെറ്റ് എഞ്ചിനൊപ്പം ഗ്യാസ് ടർബൈൻ ബ്ലേഡ് തയ്യാറാക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം അപ്പോൾ അതിന്റെ വലിയ അളവിലുള്ള ഡാറ്റയെ പ്രതിനിധീകരിക്കേണ്ടതുണ്ട് സൌജന്യ സോഫ്റ്റ്വെയറിൽ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ലായിരിക്കാം പക്ഷേ ഈ പണമടച്ചുള്ള സോഫ്റ്റ്വെയറിൽ ഇത് ചെയ്യാം സ്റ്റോറേജ് അതുകൂടാതെ ഒന്നിലധികം ഓപ്ഷനുകൾ വ്യത്യസ്ത തരം നിറങ്ങൾ നൽകുക ഒരുപക്ഷേ നിങ്ങൾക്ക് സിമുലേഷനുകൾ നൽകാം ഈ പണമടച്ചുള്ള സോഫ്റ്റ്വെയറിൽ ഇതെല്ലാം സാധ്യമാണ് ജനപ്രിയമായ ഒന്നാണ് സോളിഡ് വർക്ക്സ് ഓട്ടോക്യാഡ് കാറ്റിയ ക്രിയോ റിനോ എന്നിവയാണ് മറ്റുള്ളവ വേറെ സോഫ്റ്റ്വേയറുകളും ഉണ്ട് എന്നാൽ വ്യവസായ തലത്തിൽ ഉപയോഗിക്കുന്ന ജനപ്രിയ സോഫ്റ്റ്വെയർ ഇവയാണ് പ്രത്യേകിച്ചും നിർമ്മാണ വ്യവസായങ്ങളിൽ സോളിഡ് വർക്ക്സ് ഓട്ടോക്യാഡ് എന്നിവയാണ് ജനപ്രിയമായവ ഒന്നാമതായി നമുക്ക് ഈ സോളിഡ് വർക്ക് സോഫ്റ്റ്വെയർ വേഗത്തിൽ വീണ്ടും നോക്കാം സോളിഡ് വർക്ക്സ് സോഫ്റ്റ്വെയർ പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് ഡസ്സോൾട്ട് സിസ്റ്റംസ് ആണ് പ്രത്യേകിച്ചും പ്രൊഫഷണൽ ത്രിമാന ഡിസൈനിംഗിനായി ഈ സോളിഡ് വർക്ക്സ് വളരെയധികം സഹായിക്കുന്നു സോളിഡ് വർക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചിത്രം നമ്മൾ ഇവിടെ കാണിക്കുന്നു ഒരു ഹെലികോപ്റ്റർ ബ്ലേഡ് ഉണ്ട് നല്ല നിറവും മറ്റ് വസ്തുക്കളും ഉണ്ട് സോളിഡ് വർക്കുകൾ ഉപയോഗിച്ച് നമുക്ക് അത് നിർമ്മിക്കാൻ കഴിയും നിങ്ങൾക്ക് ബ്ലേഡുകൾ തിരിക്കാനും കാര്യങ്ങൾ നിരീക്ഷിക്കാനും പറ്റും ഗ്രിഡ് ജനറേഷനും മറ്റ് കാര്യങ്ങൾക്കുമായി മറ്റ് കൻ്റിന്നുവം മെക്കാനിക്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സോളിഡ് വർക്കുകൾ എല്ലായ്പ്പോഴും സഹായകരമാണ് അതുപോലെ കൺവെയർ ബെൽറ്റുകൾ പോലുള്ള മറ്റൊരു വ്യാവസായിക പ്രക്രിയ ഞാൻ ഇവിടെ കാണിക്കുന്നു റോളറുകൾ ബെയറിംഗുകൾ പ്രധാന ഘടന എന്നിവ പോലുള്ള നിരവധി ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഒരു ഷേഡ് പോലെയുള്ള കാര്യങ്ങളും അതുപോലെ നിരവധി കാര്യങ്ങളും അത്തരം ദൃശ്യങ്ങൾ സോളിഡ് വർക്ക്സ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മിനുക്കിയിരിക്കുന്നു ഈ സോഫ്റ്റ്വെയർ പാരാമെട്രിക് ഫീച്ചർഡ് ബേസ്ഡ് മോഡലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവസാന ക്ലാസുകളിൽ നമ്മൾ പാരാമെട്രിക് വ്യതിയാനങ്ങൾ കണ്ടു നിങ്ങൾക്ക് സർഫസ്കൾ പോലെയുള്ള ഒന്ന് നിർമ്മിക്കാൻ താൽപ്പര്യമുണ്ട് നിങ്ങൾക്ക് വിഭിന്നമായ വിവരങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് ഒരാൾക്ക് ശേഷിക്കുന്ന പോയിൻറുകൾ നിർമ്മിക്കാനും മികച്ച രീതിയിൽ ദൃശ്യവൽക്കരിക്കാനും കഴിയും ഇത്തരത്തിലുള്ള പാരാമെട്രിക് വ്യതിയാനം ഈ സോഫ്റ്റ്വെയറിന് സാധ്യമാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗും ഇതിൽ ഉൾപ്പെടുന്നു അതിനർത്ഥം നിങ്ങൾ ഇതിനകം തന്നെ ഒബ്ജക്റ്റ് നിർമ്മിച്ചു അതിനുശേഷം നിങ്ങൾക്ക് അത് വേർപെടുത്താനും ഏതുതരം മെറ്റീരിയൽ ഏതുതരം അളവുകൾ എങ്ങനെ വിശകലനം ചെയ്യാമെന്നും എല്ലാം സാധ്യമാണ് പ്രത്യേകിച്ച് സോളിഡ് വർക്ക്സ് നർബ്സ് ന്റെ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നു ഇത് അവസാന ക്ലാസുകളിൽ നമ്മൾ കണ്ടു ഈ സർഫസ് മോഡലിംഗ് നിർമ്മിക്കാൻ പോകുമ്പോൾ നമുക്ക് ബെസിയർ കർവുകൾ ബെസിയർ സർഫസ്കൾ കൂൺ സർഫസ്കൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത തന്ത്രങ്ങളുണ്ട് സോളിഡ് വർക്ക്സ് ഉപയോഗിക്കുന്ന ജനപ്രിയ രീതിയിലൊന്ന് നർബ്സ് ആണ് ഇത് പ്രധാനമായും പോളിഗണൽ മോഡലിംഗ് ഉപയോഗിക്കുന്നു അതിനാൽ സർഫസ് നിർമ്മാണത്തിനായി മികച്ച ദൃശ്യവൽക്കരണത്തിന്റെ കാര്യത്തിൽ ഈ പോളിഗണുകൾ എങ്ങനെ സഹായകമാകുമെന്ന് നമ്മൾ കണ്ടു കൂടാതെ ഇത് ഡൈമെൻഷണൽ സ്കെച്ചിംഗിനെ പിന്തുണയ്ക്കുകയും ഈ സ്കെച്ചുകൾ നിർമ്മിക്കുന്നതിൽ കുറഞ്ഞ കൈകാര്യം ചെയ്യൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു സോളിഡ് വർക്കുകളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദ്വിമാന ഒബ്ജക്റ്റുകളും ത്രിമാന ഒബ്ജക്റ്റുകളും നിർമ്മിക്കുന്നത് എത്ര എളുപ്പമാണെന്ന് നമ്മൾ കാണും ചില പ്രശ്നങ്ങളുമുണ്ട് കാരണം ഓരോ സോഫ്റ്റ്വെയറിനും അതിന്റേതായ ഗുണങ്ങളും കുറവുകളും ഉണ്ട് എസ്ടിഎൽ ഫയലുകൾ ഇതിലേക്ക് കൊണ്ടുവരാൻ ഉള്ള പരിമിതമായ കഴിവാണ് ചില അപാകതകൾ ഈ ദിവസങ്ങളിൽ ഈ ഫയലുകൾക്കായി ഈ പ്രത്യേക ഫോർമാറ്റുകൾ കൈകാര്യം ചെയ്യാൻ പോലും സോളിഡ് വർക്ക്സ് പുതിയ ഫീച്ചർകളുമായി വരുന്നു ഉദാഹരണത്തിന് ഇതിൽ SLDPRT ഫോർമാറ്റ് ഉപയോഗിക്കാം അടിസ്ഥാനപരമായി സോളിഡ് വർക്ക്സ് പാർട്ട് മോഡലിംഗ് സോളിഡ് വർക്ക് അസംബ്ലി തരത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങിയ ഫയലുകളെ ഇത് പിന്തുണയ്ക്കുന്നു എസ്ടിഎൽ തരത്തിലുള്ള പഴയ ഫോർമാറ്റിൽ ആരെങ്കിലും ശീലിച്ചിട്ടുണ്ടെൽ അവ കൊണ്ടുവരുന്നത് ചെറിയ പ്രശ്നമാണ് കൂടാതെ ഒരാൾക്ക് അധികമായി പിന്തുണയും മൊഡ്യൂളുകളും ആവശ്യമായി വരാം അത് വളരെ ചെറിയ കാര്യമാണ് ഒരു തുടക്കക്കാരന് അത് ഒരു പ്രശ്നമാകാം അതിനാൽ അത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും രണ്ടാമത്തെ കാര്യം നിങ്ങൾ എസ്ടിഎൽ ഫയലുകൾ ഡൌൺലോഡു ചെയ്യാനും എഡിറ്റു ചെയ്യാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ വേറേ ഒരു പ്രോഗ്രാം ആവശ്യമാണ് ഗ്രൂപ്പുകളുടെ സഹായത്തോടെ ഓൺലൈൻ റിസോഴ്സുകളിൽ നമ്മൾക്ക് അത് എളുപ്പത്തിൽ നേടാൻ കഴിയും മൂന്നാമത്തേത് ഫയൽ ഫോർമാറ്റ് ഔട്ട്പുട്ട് ഫയൽ ഫോർമാറ്റാണ് ഇത് ഡിസൈൻ ചെയ്ത ശേഷം ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല നിങ്ങൾ നിർമ്മിച്ചുകഴിഞ്ഞാൽ ആ ഭാഗങ്ങളും അസംബ്ലികളും എഡിറ്റുചെയ്യാൻ നിങ്ങൾക്ക് സോളിഡ് വർക്കുകൾ മാത്രമേ ഉപയോഗിക്കാനാകൂ ആ ഫയൽ എഡിറ്റുചെയ്യാൻ നിങ്ങൾക്ക് മറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ കഴിയില്ല ആ പിന്തുണ വളരെ കുറവാണ് ഇവ ചെറിയ പ്രശ്നങ്ങളാണ് നമ്മൾ സോളിഡ്വർക്കുകളിൽ ഉറച്ചുനിൽക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾ മനസിലാക്കാൻ ശ്രമിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഓട്ടോക്യാഡ് ആണ് ഡിസൈനിംഗിലെ മറ്റൊരു ജനപ്രിയ സോഫ്റ്റ്വെയർ ഈ ഓട്ടോക്യാഡ് പ്രധാനമായും 1982 ൽ തന്നെ ഓട്ടോഡെസ്ക് സൃഷ്ടിച്ചതാണ് കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ഈ ഡ്രാഫ്റ്റിംഗ് നിർമ്മിക്കുന്നതിലെ കണ്ടുപിടുത്തക്കാർ ഇവരാണ് നിങ്ങൾ പ്രധാനമായും 2 ഡി പ്രിന്റിംഗ് അല്ലെങ്കിൽ 2 ഡി ഡ്രാഫ്റ്റിംഗ് ബ്ലൂപ്രിന്റുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നിവയ്ക്കാണ് പോകുന്നതെങ്കിൽ ഇത് ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഉപകരണമാണ് കാര്യങ്ങൾ നിർമ്മിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമാണിത് പ്രത്യേകിച്ചും നിങ്ങൾ ഏതെങ്കിലും വർക്ക്ഷോപ്പുകളിലേക്ക് പോകുകയാണെങ്കിൽ മെഷീൻ ഷോപ്പുകളിൽ ഇപ്പോഴും ഓട്ടോക്യാഡ് വളരെ ജനപ്രിയമാണ് കാരണം നിങ്ങളുടെ വിവരങ്ങൾ വളരെ ഫലപ്രദമായി അയയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം ഓട്ടോക്യാഡ് നിങ്ങൾക്ക് അത്തരം നേട്ടങ്ങൾ നൽകുന്നു മാക്രോ സ്ക്രിപ്റ്റുകൾടെ പഠനം വളരെ ബുദ്ധിമുട്ടേറിയതാണ് പ്രോഗ്രാമിംഗിൽ നിങ്ങൾക്ക് വശമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മാക്രോകൾ നിർമ്മിക്കാൻ കഴിയും നിങ്ങൾക്ക് സങ്കീർണ്ണമായ ഘടനകൾ പോലും നിർമ്മിക്കാൻ കഴിയും ഇത് പ്രധാനമായും തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ ലക്ഷ്യം വച്ചുള്ളതാണ് കൂടാതെ കാര്യങ്ങൾ അൽഗോരിതം രീതിയിൽ നോക്കുന്ന ആൾക്കാരും മൂന്നാമത്തേത് 3 ഡി മോഡലുകൾക്ക് 3 ഡി പ്രിന്റിംഗിനായി എസ്ടിഎൽ ഫയലുകളിലേക്ക് എളുപ്പത്തിൽ പരിവർത്തനം ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾ എസ്ടിഎൽ പോലുള്ള പഴയ രീതിയിലുള്ള ഫോർമാറ്റുകൾക്കായി പോകുമ്പോൾ ഓട്ടോക്യാഡ് വളരെയധികം സഹായം ചെയ്യും ഇത് നമ്മൾക്ക് ഒരു നേട്ടം നൽകുന്നു ഇപ്പോൾ ഓട്ടോക്യാഡ് 360 ആയി മൊബൈൽ വെബ് ആപ്ലിക്കേഷനുകളിൽ പോലും ഓട്ടോക്യാഡ് ലഭ്യമാണ് ഇതിന് പരിമിതമായ പതിപ്പുകളുണ്ട് അതിനാൽ പണവും മറ്റ് കാര്യങ്ങളും നൽകുന്ന കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കണം അതിനാൽ ഇത് സൌജന്യ സോഫ്റ്റ്വെയറല്ല നിങ്ങളു കാശു കൊടുക്കണം പക്ഷെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ ഡിസൈനുകൾ നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ് ഇതിന്റെ ഗുണം നിങ്ങൾ ഒരു പ്രൊഫഷണലാണെങ്കിൽ ഇത് വസ്തുക്കളുടെ രൂപകൽപ്പനയിൽ വളരെയധികം സഹായം നൽകുന്നു ഇപ്പോൾ നമ്മളുടെ കോഴ്സിനായി നമ്മൾ സോളിഡ് വർക്ക്സ് ഇഷ്ടപ്പെടുന്നു കാരണം ഇത് വളരെ തുടക്കക്കാർക്ക് വേണ്ടിയുള്ളതാണ് അവിടെ അവർക്ക് പ്രോഗ്രാമിംഗ് കഴിവുകളെക്കുറിച്ച് പോലും അറിവ് ആവശ്യമില്ല നിങ്ങൾക്ക് ഈ സോളിഡ് വർക്കുകൾ നോക്കാം നിങ്ങൾക്ക് സോളിഡ് വർക്കുകളിലൂടെ പോകാം ഇപ്പോ മിക്ക കോളേജുകളിലും സോളിഡ് വർക്ക് ഉണ്ടായിരിക്കാം അതിനാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിങ്ങളെ സോളിഡ് വർക്കുകളെക്കുറിച്ചുള്ള പ്രാഥമിക കാര്യങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നു ഒരിക്കൽ നിങ്ങൾ ഈ ക്ലാസ്സിലൂടെ കടന്നുപോയാൽ 3 ഡി ഒബ്ജക്റ്റുകൾ നിർമ്മിക്കുന്നതിൽ നിങ്ങൾക്ക് ഏറെക്കുറെ എളുപ്പമായിരിക്കും പിന്നീടുള്ള ക്ലാസുകളിലും നമ്മൾ കുറച്ച് 3 ഡി ഒബ്ജക്റ്റുകൾ പരിശീലിക്കും അതിനാൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് അടിസ്ഥാനമാക്കിയുള്ള ആപ്ലിക്കേഷനാണ് സോളിഡ് വർക്ക്സ് നിങ്ങൾക്ക് സാധനങ്ങൾ ക്ലിക്കു ചെയ്യുക നിങ്ങൾക്ക് അത് കിട്ടും അങ്ങനെ ആദ്യം നിങ്ങൾ എല്ലായ്പ്പോഴും സോളിഡ് വർക്ക്സ് ഐക്കണിൽ ഇരട്ട ക്ലിക്കുചെയ്യണം അതിനാൽ ഇത് തുറക്കുന്നു ഇത് ഒരു വിൻഡോ തുറക്കുന്നു തുടർന്ന് ഒരു ഒബ്ജക്റ്റ് നിർമ്മിക്കുന്നതിന് നിങ്ങൾ ന്യു ക്ലിക്കുചെയ്യണം തുടർന്ന് നിങ്ങൾ പാർട്ട് ഡ്രോയിംഗിനൊപ്പം പോയി ഘട്ടം ഘട്ടമായി നിർമ്മിച്ച് കാര്യം പൂർത്തിയാക്കുക പരിശീലിക്കുമ്പോൾ നമ്മൾ അത് കാണും ആദ്യം എല്ലായ്പ്പോഴും ഇരട്ട ക്ലിക്കുചെയ്യുന്നു തുടർന്ന് അത് ഒരു വിൻഡോ തുറക്കുന്നു നിങ്ങൾ പാർട്ട് ഡ്രോയിംഗ് തിരഞ്ഞെടുക്കുക തുടർന്ന് പാത്ത് ഡ്രോയിംഗ് വരയ്ക്കുക തുടർന്ന് കാര്യങ്ങൾ വരച്ചുകൊണ്ട് പതിവായി ഫയൽ സേവ് ചെയ്യുക കാരണം ചില വിദ്യാർത്ഥികൾക്ക് ഈ മൌസ് ഇടത് ക്ലിക്ക് വലത് ക്ലിക്ക് തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അത്ര പരിചിതമല്ലാത്തതിനാൽ നമ്മൾ ആ വിവരങ്ങൾ വീണ്ടും ശേഖരിക്കാൻ പോകുന്നു നിങ്ങൾ എല്ലായ്പ്പോഴും ഇടത് മൌസ് ബട്ടൺ ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഒരു മൌസ് ഉണ്ടെങ്കിൽ ആ മൌസിൽ വലത് ഒന്ന് ഇടത് ഒന്ന് അങ്ങനെ ഉണ്ടാകും അതിനാൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇടത് മൌസ് ഏതെങ്കിലും കമാൻഡുകൾ ബട്ടണുകൾ ജ്യാമിതി അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങൾ തിരഞ്ഞെടുക്കാൻ ആണ് ഒരു ഫയലോ ഫോൾഡറോ വേഗത്തിൽ തുറക്കുന്നതിന് നിങ്ങൾ ഇടത് മൌസിൽ ഇരട്ട ക്ലിക്കുചെയ്യുക ഇത്തരത്തിലുള്ള കുറുക്കുവഴികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ മൌസ് ബട്ടണിന്റെ വലതുവശത്ത് ഏത് കുറുക്കുവഴി മെനുവും നമ്മൾ അത് വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനാൽ പോയിന്റുകൾ തിരഞ്ഞെടുക്കുന്നതിനോ പോയിന്റുകൾ അല്ലെങ്കിൽ കർവുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനോ ഉള്ള ഒരു വലിയ സഹായമാണ് മൌസ് ഈ സോളിഡ് വർക്കുകളിലുടനീളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ പതിവായി ഡ്രോയിംഗ് സേവ് ചെയ്യേണ്ടതാണ് ഈ വിൻഡോയുടെ വലുപ്പം മാറ്റാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നു അത് നമ്മൾ പിന്നീട് കാണും നിങ്ങളുടെ കീപാഡിൽ മുകളിലേക്കുള്ള ആരോ സൈഡ് ആരോ മറ്റൊരു വശത്തെ ആരോ താഴേക്കുള്ള ആരോ എന്നിവ പോലുള്ള ബട്ടണുകൾ ഉണ്ട് വിൻഡോയുടെ വലുപ്പം മാറ്റുന്നതിനും മുകളിലേക്ക് നീക്കുന്നതിനും താഴേയ്ക്ക് വലുതാക്കുന്നതിനും മറ്റ് കാര്യങ്ങൾക്കും നിങ്ങൾ ഈ കോമ്പിനേഷനുകൾ ഉപയോഗിക്കുന്നു വലുപ്പം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ സൈഡ് ബട്ടണുകൾ ഒരുമിച്ച് ഉപയോഗിക്കുക അതുപോലെ ഈ വലുപ്പം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ രണ്ട് ബട്ടണുകളും ഒരുമിച്ച് ഉപയോഗിക്കുക നിങ്ങൾ അവയെ ഒന്നിച്ച് അമർത്തിയാൽ അത് വലുതാക്കുകയോ വലുപ്പം മാറ്റുകയോ ചെയ്യും അതിനാൽ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പിനേഷനുകളാണ് ഇവ ഇപ്പോൾ ഒന്നാമതായി നമ്മൾ സോളിഡ് വർക്കുകളിൽ കുറച്ച് കീവേഡുകൾ പഠിക്കണം ഈ സോളിഡ്വർക്കുകളിൽ ഇരട്ട ക്ലിക്കുചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു പാനൽ പോലെയുള്ള ഒന്ന് ഉണ്ടാകും അവിടെ ഇതുപോലുള്ള ചില കാര്യങ്ങൾ ഡാറ്റയാണ് മറ്റ് ചില സ്ഥലങ്ങൾ മറ്റ് ചില ഡാറ്റകൾ പരാമർശിക്കും മറ്റ് ചില സ്ഥലങ്ങൾ മറ്റ് ചില ഡാറ്റകൾ പരാമർശിക്കപ്പെടും ടൂൾബാർ മെനു ഉണ്ടാകും അതിൽ കുറെ കാര്യങ്ങളും ഉണ്ടാകും നമ്മളുടെ ഡ്രോയിംഗിൽ ഭൂരിഭാഗവും ഈ എക്സ് ലൊക്കേഷനിൽ നമ്മൾ പ്രവർത്തിക്കുന്നു അവശേഷിക്കുന്ന ഷേഡുള്ള ഭാഗങ്ങൾ നമ്മൾ ആ ടൂൾസ് ഉപയോഗിക്കുന്നതിനെ അടിസ്ഥാനമാക്കി ഉചിതമായി തിരഞ്ഞെടുക്കുന്നു ഇപ്പോൾ അവ എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ഉദാഹരണത്തിന് അതിൽ ഒരു കീവേഡ് നെയിം ഫീച്ചർ മാനേജർ കണ്ടേക്കാം ആ ഫീച്ചർ മാനേജറിൽ നമ്മൾക്ക് ഫ്രണ്ട് ടോപ് റൈറ്റ് പ്ളെയിൻ പോലുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കാം നമ്മൾ ഈ ഒബ്ജക്റ്റുകൾ നിർമ്മിക്കുമ്പോൾ ഫ്രണ്ട് വ്യൂ റൈറ്റ് വ്യൂ സൈഡ് വ്യൂ അല്ലെങ്കിൽ ഏത് വശത്താണ് നമ്മൾ നിർമ്മിക്കാൻ താൽപ്പര്യപ്പെടുന്നതെന്ന് ഞാൻ ഇടയ്ക്കിടെ ക്ലിക്കുചെയ്യേണ്ടതുണ്ട് ആ ആവശ്യത്തിനായി നമ്മൾക്ക് ചില ഓപ്ഷനുകൾ ഉണ്ട് അതുപോലെ ഞാൻ ഒബ്ജക്റ്റ് എക്സ്ട്രൂഡ് ചെയ്യുന്നുണ്ടോ ഒരു കട്ട് ഉണ്ടാക്കുന്നുണ്ടോ സർഫസ് നിറക്കുന്നൊണ്ടോ ഫില്ലെറ്റിങ് ഷാംഫറിംഗ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്നിവ എന്തൊക്കെയാണെങ്കിലും അത് പരാമർശിക്കുന്ന ചില വസ്തുക്കൾ ഉണ്ട് ഫീചേഴ്സ് എന്ന് വിളിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ എന്തുതന്നെയായാലും അല്ലെങ്കിൽ മാനേജർ അതുപോലെ നിങ്ങളുടെ സോളിഡ് വർക്ക്സിന്റെ ആ ഭാഗം നമ്മൾ ഫീച്ചർ മാനേജർ എന്ന് വിളിക്കുന്നു അതിനാൽ സാധാരണയായി സോളിഡ് വർക്കുകൾക്കായി നമ്മൾ അത് ഇടത് വശത്ത് കാണുന്നു ഇവിടെ എവിടെയെങ്കിലും നമ്മൾക്ക് ആ ഫീച്ചർ മാനേജർ ഉണ്ട് പ്രോപ്പർട്ടി മാനേജർ പോലെയുള്ള ചിലത് ഉണ്ട് അതിനാൽ നിങ്ങൾ ആ ഫീച്ചർ മാനേജരെ നോക്കുകയാണെങ്കിൽ 3 ബട്ടണുകൾ 1 2 3 എന്നിവയുണ്ട് ഓരോന്നും ഈ മാനേജർ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ആദ്യ ബട്ടൺ ഫീച്ചർ മാനേജറാണ് ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബട്ടണിലേക്ക് പോകാം അതിനെ നമ്മൾ പ്രോപ്പർട്ടി മാനേജർ എന്ന് വിളിക്കുന്നു അതിൽ ഞാൻ ഏത് ഫേസ് ആണ് നോക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും ആ ഫേസ് ഏതെങ്കിലും അരികിൽ ചേർത്തിട്ടുണ്ടോ ഇല്ലയോ ഏത് തരം സോളിഡുകൾ മെഷ് ചെയ്തതും മറ്റ് തരത്തിലുള്ള വിശദാംശങ്ങളും അതിനാൽ ഈ പ്രോപ്പർട്ടികൾ ഈ രണ്ടാമത്തെ ബട്ടണിൽ നിങ്ങൾക്ക് ലഭിക്കും അവിടെ നിങ്ങൾക്ക് ഒരു ശൂന്യ പേജ് പോലുള്ള ഒരു ഐക്കൺ ലഭിക്കും മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് അതിനെ നമ്മൾ കോൺഫിഗറേഷൻ മാനേജർ എന്ന് വിളിക്കുന്നു അതിൽ നമുക്ക് ലഭിക്കുന്ന മെറ്റീരിയൽ പ്രോപ്പർട്ടികൾ വലുപ്പം ഭാരം അളവുകൾ മറ്റ് കാര്യങ്ങൾ എന്നിവ എന്താണെന്ന് ഇത് കാണിക്കുന്നു കാലക്രമേണ നമ്മൾ ഈ വാക്കുകളുമായി പൊരുത്തപ്പെടും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസിലാക്കാൻ കഴിയും സോളിഡ് വർക്ക് ഒന്ന് ഓൺലൈനിൽ പഠിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും സാങ്കേതിക സഹായം ആവശ്യമുള്ള മിക്ക വിഭവങ്ങളും നിങ്ങൾ പഠിക്കും മറ്റൊരു വഴി നിങ്ങൾക്ക് ഒരു പുതിയ ഡോക്യുമെൻ്റ് എങ്ങനെ സൃഷ്ടിക്കാം ഒരു പുതിയ ഡോക്യുമെൻ്റ് എങ്ങനെ തുറക്കാം അല്ലെങ്കിൽ ഒരുപക്ഷേ ഓൺലൈൻ ട്യൂട്ടോറിയലുകൾ എങ്ങനെ നേടാം അല്ലെങ്കിൽ മറ്റ് സബ്സ്ക്രിപ്ഷൻ സേവനങ്ങൾ ഇതൊക്കെ നമ്മൾ ഇതിൽ പഠിക്കും അതിനാൽ എല്ലായ്പ്പോഴും സോളിഡ് വർക്ക് റിസോഴ്സസ് എന്ന ഒരു ശീർഷകം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റുചെയ്യാൻ കഴിയുന്ന എന്തും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടാൻ കഴിയും ഒരു കീവേഡ് നെയിം ഡിസൈൻ ലൈബ്രറി കൂടി ഉണ്ട് ഈ അനുയോജ്യമായ സ്ഥലത്ത് നമ്മൾ എങ്ങനെ വലിച്ചിടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ആ ടൂൾ ഇടതുവശത്തോ വലതുവശത്തോ വരുന്നു അവിടെ നമ്മൾ അസംബ്ലിയുമായി പോകുന്നുണ്ടോ ഏതെങ്കിലും ഫീച്ചർകൾ സ്പർശിച്ചിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ കാണും ഏതെങ്കിലും വ്യാഖ്യാനം നൽകിയിട്ടുണ്ടെങ്കിൽ ഈ വിശദാംശങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കും ആ വിവരങ്ങൾക്ക് വീണ്ടും പശ്ചാത്തല വിവരങ്ങൾ പോലുള്ള എന്തെങ്കിലും നമ്മൾക്ക് ലഭിക്കും നിങ്ങൾ ഫ്ലോർ ഷോപ്പിംഗും മറ്റ് കാര്യങ്ങളും നോക്കുമ്പോൾ നമ്മൾ അത് വ്യാപകമായി ഉപയോഗിക്കും നമ്മളുടെ കോഴ്സിനായി നമ്മൾക്ക് ആ വിവരങ്ങളെല്ലാം ആവശ്യമായി വരില്ല എങ്ങനെ സ്കെച്ച് ചെയ്യണം ത്രിമാന ഒബ്ജക്റ്റുകൾ എങ്ങനെ നിർമ്മിക്കാം അവ എങ്ങനെ കൂട്ടിച്ചേർക്കാം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടൂൾബാർ എന്ന് വിളിക്കുന്ന മറ്റൊരു പ്രധാന ഒബ്ജക്റ്റ് ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ ടൂൾ ലഭിക്കുന്ന വർക്ക്ബെഞ്ച് പോലെയാണ് ഇത് ഉദാഹരണത്തിന് നിങ്ങൾ ഒബ്ജക്റ്റ് സ്കെച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ ഒബ്ജക്റ്റ് സ്കെച്ച് ഭാഗം അവിടെ ഉണ്ടാകും മെറ്റീരിയൽ ഇടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എക്സ്ട്രൂഡ് പോലുള്ള എന്തെങ്കിലും അവിടെ ഉണ്ടാകും വ്യത്യസ്ത തരം തന്ത്രങ്ങളെ അടിസ്ഥാനമാക്കി ഈ സർഫസ്കളെ എങ്ങനെ കറക്കാം എന്ന് നമ്മൾ കണ്ട് നമ്മൾ കണ്ട തന്ത്രങ്ങളെപ്പോലുള്ള വസ്തുക്കളെ എങ്ങനെ എക്സ്ട്രുഡ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ കണ്ടു ഷാംഫെറിംഗ് എന്നതിന്റെ അർത്ഥമെന്താണ് എങ്ങനെ ആണ് ഫില്ലട്ടിംഗ് എന്താണ് അർത്ഥമാക്കുന്നത് എന്നും നമ്മൾ കണ്ടു അത് ഈ പ്രത്യേക അൽഗോരിതംസ് എടുക്കുന്നു അതിൽ ക്ലിക്കുചെയ്യുന്നതിലൂടെ അത് യാന്ത്രികമായി എടുക്കുകയും ഷാംഫർ ചെയ്യുകയും ചെയ്യുന്നു അതിനായി നമ്മൾ ചില അധിക ഫീച്ചർകൾ നൽകേണ്ടി വന്നേക്കാം ഐസോമെട്രിക് കാഴ്ച കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നതുപോലുള്ള അധിക കാര്യങ്ങളും ഉണ്ടാകും ഒരുപക്ഷേ ഞാൻ ഒരേയൊരു ടോപ്പ് വ്യൂ കാണാൻ ആഗ്രഹിക്കുന്നു ചുവടെയുള്ള ഏക വ്യൂ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത്തരം വിശദാംശങ്ങളും നമ്മൾക്ക് ലഭിക്കും അത് അല്ലെങ്കിൽ നമ്മൾ ചില പ്രത്യേക ഫോക്കസ് നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ടാപ്പറിംഗ് പോലുള്ള എന്തെങ്കിലും നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ ലെവലിൽ മിക്കവാറും എല്ലാ സ്റ്റീൽ ടൂൾസും ഉണ്ട് അതിനാൽ ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ വൈദഗ്ധ്യത്തെ അടിസ്ഥാനമാക്കി ആണ് നിങ്ങൾ എത്രമാത്രം തയ്യാറാക്കാൻ പോകുന്നു എന്നത് ഇപ്പോൾ ഈ കീവേഡുകളുടെ മുഴുവൻ വിവരങ്ങളും സംഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് നമ്മൾക്ക് ഈ രീതിയിൽ മാത്രമല്ല ചിലപ്പോൾ നിങ്ങളുടെ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വലിച്ചിഴച്ചേക്കാം എന്നാൽ പൊതുവേ ആ വാക്കുകൾ നോക്കുന്നതിലൂടെ അത് ഏത് ഭാഗത്തിൽ പെട്ടതാണെന്ന് മനസിലാക്കാൻ നമുക്ക് പറ്റും നമുക്ക് അത് നോക്കാം ആദ്യത്തേത് ഒരു ട്രയാഡ് അതിനാൽ നിങ്ങൾ വരയ്ക്കുന്നതെന്തും സംഭവിക്കുന്നത് ആ ഡ്രോയിംഗ് മുഴുവൻ ആ വസ്തുവിന്റെ ഈ ചുവന്ന ഭാഗത്തിനുള്ളിൽ തന്നെ നിർമ്മിക്കപ്പെടും നിങ്ങൾ പോയിന്റ് തിരഞ്ഞെടുക്കുന്ന ടെർമിനലാണിത് ടെർമിനലിൽ ഇത് എല്ലായ്പ്പോഴും x ആക്സിസ് ദിശ y ആക്സിസ് ദിശ z ദിശ എന്നിവയും കാണിക്കുന്നു നിങ്ങൾ അത് തിരിക്കുമ്പോൾ തിരിക്കാൻ ഒരു ഓപ്ഷനുണ്ട് ഈ ട്രയാഡും കറങ്ങുന്നു അതിനാൽ ഈ ഏരിയ ഗ്രാഫിക്സ് ഏരിയയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന മിക്ക ഡ്രോയിംഗുകളും ഒരു ട്രയാഡ് ഉൾക്കൊള്ളുന്നു രണ്ടാമത്തെ ഭാഗം അളവാണ് നിങ്ങൾ സെന്റിമീറ്റർ മില്ലിമീറ്റർ ഇഞ്ച് എന്നിവയിൽ ഏതാണ് ഉപയോഗിക്കുന്നത് അത് അവിടെ പരാമർശിക്കും നിങ്ങൾ ആ ഓപ്ഷനിൽ ക്ലിക്കുചെയ്യുക അത് പല കാര്യങ്ങളും കാണിക്കും അതിനാൽ നിങ്ങൾ ഇത് ക്രമീകരിക്കണം പരിശീലനത്തിനായി നമ്മൾ ഒരുതരം യൂണിറ്റ് സംവിധാനവുമായി പോകും നമ്മൾ പരിചിതരായിക്കഴിഞ്ഞാൽ ആ അളവുകൾ ക്ലിക്കുചെയ്ത് അത് എങ്ങനെ മാറ്റാമെന്ന് നമ്മൾ പഠിക്കും എന്നാൽ നിങ്ങളുടെ ജ്യാമിതിയിലുടനീളം നിങ്ങൾ ഒരു സിസ്റ്റത്തിന്റെ യൂണിറ്റിൽ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ഓർമ്മിക്കുക നിങ്ങൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് സൃഷ്ടിക്കുന്നു അത് പാർട്ട് ഡ്രോയിംഗ് ആയി സേവ് ചെയ്യുക തുടർന്ന് അത് സമന്വയിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ യൂണിറ്റ് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഫലപ്രദമായ ഡ്രോയിംഗ് നേടാനാകില്ല അതിനാൽ ഒരു തരത്തിലുള്ള യൂണിറ്റുകളുമായി എല്ലായ്പ്പോഴും സ്ഥിരത പുലർത്തുക ഇവിടെ കാഴ്ചകൾ ലഭ്യമാകും അതിനാൽ ഐസോമെട്രിക് വ്യൂകൾ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഇവയെല്ലാം ക്ലിക്കുചെയ്യുന്നതിലൂടെ നിങ്ങൾക്കത് ലഭിക്കും സൂം ഇൻ ഉണ്ടാകും സൂം ഔട്ട് ഇവിടെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ഫയൽ സേവ് ചെയ്യാൻ താൽപ്പര്യമുണ്ട് നിങ്ങൾ അത് എഡിറ്റുചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു ഉപകരണങ്ങൾ മറ്റ് ഒബ്ജക്റ്റുകൾ ചേർക്കാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നു നിങ്ങൾക്കത് എല്ലാം സാധിക്കും ഞാൻ പറഞ്ഞതുപോലുള്ള ഫീച്ചർ മാനേജർ ഇവിടെ ആദ്യത്തെ ബട്ടണിൽ ലഭ്യമാകും അതിനാൽ നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ ടോപ് വ്യൂ റൈറ്റ് വ്യൂ നമ്മൾ നടത്തിയ പഠനം എന്നിവ അടങ്ങിയിരിക്കുന്നു നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അധിക കാര്യങ്ങൾ ഈ ടാസ്ക് പാനലിൽ നൽകും നമ്മൾ കാര്യങ്ങൾ ക്ലിക്കുചെയ്യുമ്പോൾ ഇത് നന്നായി മനസ്സിലാക്കും പ്രത്യേകിച്ചും സോളിഡ് വർക്കുകൾ നമ്മൾ വിഭജിക്കാൻ പോകുന്നുവെങ്കിൽ അതിൽ പ്രധാനമായും 3 ഭാഗങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ വ്യക്തിഗത ഭാഗങ്ങൾ തയ്യാറാക്കി വ്യക്തിഗത ഫയലുകൾ സംരക്ഷിക്കുക തുടർന്ന് ഒത്തുചേരാനായി ആ വ്യക്തിഗത ഭാഗങ്ങൾ കൊണ്ടുവരിക അതിനർത്ഥം ഉദാഹരണത്തിന് ഞാൻ ഇത് നൈപുണ്യത്താൽ നിർമ്മിക്കാൻ താൽപ്പര്യപ്പെടുന്നു ഒരുപക്ഷേ ഞാൻ ഒരു പേന പോലെയുള്ള ഒന്ന് നിർമ്മിക്കാൻ താൽപ്പര്യപ്പെടുന്നു ഞാൻ ചെയ്യുന്നത് ഞാൻ ഒരു അടപ്പ് തയ്യാറാക്കും ഞാൻ ഒരു റീഫിൽ തയ്യാറാക്കും ചുവടെയുള്ള ഭാഗം പോലുള്ള എന്തെങ്കിലും ഞാൻ തയ്യാറാക്കും വ്യക്തിഗത ഭാഗങ്ങൾ സേവ് ചെയും തുടർന്ന് അത് ശ്രദ്ധാപൂർവ്വം ലോഡുചെയ്യുക ഉറപ്പിക്കുക അങ്ങനെ പേന പോലുള്ള സംയോജിത ഭാഗം നിർമ്മിക്കാൻ കഴിയും ഒരു സൈക്കിളിന് പോലും സമാനമായ കാര്യം സംഭവിക്കുന്നു നിങ്ങൾ ഒരു സീറ്റ് ചെയിൻ സ്പ്രോക്കറ്റ് വീൽ ടയർ നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വ്യക്തിഗത ഭാഗങ്ങൾ തയ്യാറാക്കുന്നു അവ സേവ് ചെയ്യുക തുടർന്ന് അവ ലോഡുചെയ്യുക കൂട്ടിച്ചേർക്കുക ദൃശ്യവൽക്കരിക്കുക പ്രാദേശിക കടകളിൽ ഉള്ള ഒരാൾക്ക് ആ വിവരങ്ങൾ കൈമാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു തുടർന്ന് നിങ്ങൾ ഒരു ഡ്രോയിംഗ് ഷീറ്റ് പോലെയുള്ള ഒന്ന് നിർമ്മിക്കുക എന്നതാണ് അത് തയാറാക്കി കഴിഞ്ഞാൽ ഒരു ഡ്രോയിംഗ് ഷീറ്റ് നിർമ്മിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ളിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ദ്വിമാന ചിത്രം കിട്ടും അത് നിങ്ങൾക്ക് ആരുമായും എളുപ്പത്തിൽ പങ്കിടാൻ കഴിയും അതിനാൽ അങ്ങനെ നിർമ്മിക്കാൻ പോകുന്ന ആരും അത് തയ്യാറാക്കും അതിനാൽ നമ്മൾ ഇത് സംഗ്രഹിക്കാൻ പോകുന്നുവെങ്കിൽ നിങ്ങൾ വസ്തുക്കൾ തയ്യാറാക്കുക ഇത് ഒരൊറ്റ വസ്തുവാണെങ്കിൽ നിങ്ങൾ എന്താണ് തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾ പാർട്ട് ഡ്രോയിംഗ് എന്ന് വിളിക്കുന്നു ഇവിടെയും നമ്മൾ ഒരൊറ്റ ഒബ്ജക്റ്റ് ഭാഗം മാത്രം തയ്യാറാക്കാൻ പോകുന്നു ഇത് ഞാൻ അതിനെ ഭാഗം 1 ആയി സേവ് ചെയും ഇത് ഞാൻ ഭാഗം 2 ആയി സേവ് ചെയും തുടർന്ന് ഞാൻ അത് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് ഞാൻ ഓരോ ഭാഗവും ലോഡുചെയ്യുന്നു ഓരോ ഭാഗവും ഞാൻ തയ്യാറാക്കുകയും ലോഡ് ചെയ്യുകയും കൂട്ടിച്ചേർക്കൽ നടത്തുകയും ചെയ്യും അങ്ങനെ ഒരു ഒബ്ജക്റ്റ് അസംബ്ലിയായി നമുക്ക് ലഭിക്കും ഇങ്ങനെയാണ് മിക്കതും സംഭവിക്കുന്നത് അതിലുപരിയായി നമ്മൾ ഒരു ഡ്രോയിംഗ് ഷീറ്റ് തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നു വ്യക്തിഗത ഭാഗങ്ങളിൽ നിന്ന് ഈ അസംബ്ലി കാര്യം സൃഷ്ടിച്ചുകഴിഞ്ഞാൽ ബട്ടൺ ഓപ്ഷനുകൾ ഉണ്ടാകും നിങ്ങൾ ക്ലിക്കുചെയ്യുന്ന ബട്ടൺ ഉണ്ടാകും അതിനാൽ എന്താണ് ടോപ്പ് വ്യൂ എന്താണ് ഫ്രണ്ട് വ്യൂ എന്താണ് സൈഡ് വ്യൂ എന്താണ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചത് അതിൻ്റെ പേര് എന്താണ് എന്നാണ് തയ്യാറാക്കിയത് തുടങ്ങിയവ പോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നു ആ ഷീറ്റ് എന്തായിരിക്കണമെന്ന് നമ്മൾ ആണ് തീരുമാനിക്കുന്നത് ശ്രദ്ധാപൂർവ്വം വരയ്ക്കുക മുമ്പത്തെ ക്ലാസുകളിലേതുപോലെ ടാസ്ക് വിഭജിക്കുക ഭാഗം എ ബി സി ഡി 1 2 3 4 ഈ യൂണിറ്റ് സിസ്റ്റം ഒരുപക്ഷേ ശീർഷക ലേബലുകൾ പോലുള്ളവ ഇവയെല്ലാം നമ്മൾ സ്വമേധയാ തയ്യാറാക്കുന്നു എന്നാൽ ഇവിടെ സോഫ്റ്റ്വെയറിൽ അളവുകൾ കൊടുക്കുന്നു ഓരോ ഭാഗവും സൃഷ്ടിക്കുന്നു നിങ്ങൾ അത് കൂട്ടിച്ചേർക്കുന്നു തുടർന്ന് ഭാഗങ്ങൾ വേർതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അസംബ്ലി അല്ലെങ്കിൽ പാർട്ട് ഡ്രോയിംഗുകൾക്കായി നിങ്ങൾക്ക് വ്യക്തിഗത ഡ്രോയിംഗുകൾ നേരിട്ട് നിർമ്മിക്കാൻ കഴിയും ഇവിടെ നമ്മൾക്ക് ആ പാർട്ട് ഡ്രോയിംഗുകൾ വിവരങ്ങൾ ഉണ്ട് ഇത് അസംബ്ലി ആണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തിഗത ഭാഗങ്ങളും ഐസോമെട്രിക് വ്യൂവും ലഭിക്കും അതിനാൽ കഠിനമായ എല്ലാ ജോലികളും ഈ സോഫ്റ്റ്വെയർ വളരെ എളുപ്പത്തിൽ ചെയ്യും സോളിഡ് വർക്കുകളിൽ മറ്റ് കീവേഡുകളും ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഒരിക്കൽ ഈ സോളിഡ് വർക്ക് ഡ്രോയിംഗ് തയ്യാറാക്കിയാൽ ബോസ് എക്സ്ട്രൂഡ് കട്ട് ഹോൾ തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടാകും അതിനാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തായാലും ഇത് കട്ട് ആണ് ഇത് ഒരു ഫില്ലറ്റ് തരത്തിലുള്ള സർഫസ്കൾ പോലെയാകാം ഇതും കട്ട് ആണ് എക്സ്ട്രൂഷൻ സംഭവിക്കാം കാരണം ആദ്യം നമ്മൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒബ്ജക്റ്റ് നിർമ്മിക്കുകയും പിന്നീട് ത്രിമാന തലത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയും ആ മെറ്റീരിയൽ അതിൽ ഇടുകയും ചെയ്യുന്നു ആ വസ്തു നമ്മൾക്ക് ലഭിച്ചു അതിനാൽ ഈ ഫീച്ചർകളെല്ലാം നിങ്ങൾക്ക് ഈ ഫീച്ചർ മാനേജറിൽ ഉണ്ടാകും അതിനാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തായാലും അത് വ്യക്തമാകും ഒരു ലെവലിൽ നമ്മൾ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾക്ക് അത് ഇല്ലാതാക്കാനും ശേഷിക്കുന്ന കാര്യങ്ങളിൽ തുടരാനും കഴിയും അതിനാൽ ഈ ഫീച്ചർ സോളിഡ് വർക്ക്സിലെ ശക്തമായ ഒരു ആശയമാണ് ബേസ് ഫീച്ചർ എന്ന് നമ്മൾ വിളിക്കുന്ന എന്തും പ്രാഥമിക പതിപ്പാണ് അല്ലെങ്കിൽ ഡ്രോയിംഗിന്റെ ആരംഭ പതിപ്പാണ് ഉദാഹരണത്തിന് ഞാൻ ഈ ഒബ്ജക്റ്റ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുആദ്യം ഞാൻ ഒരു ചതുരാകൃതിയിലുള്ള കട്ട പോലെയാക്കും അതിൽ ആ ഭാഗം നീക്കംചെയ്യുക ഈ ഭാഗം നീക്കംചെയ്യുക പോലുള്ള ഒരു പ്രവർത്തനം ഞാൻ നടത്തും അതിനാൽ ഈ മുഴുവൻ ഭാഗവും നമ്മൾ നീക്കംചെയ്യും അതിനാൽ ആദ്യത്തേത് നമ്മൾ ശ്രദ്ധാപൂർവ്വം നിർമ്മിക്കാൻ പോകുന്നത് അതിനെ ആണ് ബേസ് ഫീച്ചർ എന്ന് വിളിക്കുന്നത് മെറ്റീരിയലും മറ്റ് കാര്യങ്ങളും ചേർക്കുക വിപുലീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന ഇടമാണ് ബോസ് ഫീച്ചർ അതിനാൽ നമ്മൾ ബേസ് നിർമ്മിച്ചു അതിൽ ബോസ് വിവരങ്ങളും അധിക കാര്യങ്ങളും ചേർക്കാൻ പോകുന്നു സോളിഡ് വർക്ക്സിൽ മറ്റ് കീവേഡുകളും ഉൾപ്പെടുന്നു ഒരു ചതുരാകൃതിയിലുള്ള ഒരു വസ്തുവിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മൾ തയ്യാറാക്കിയ ഈ വസ്തു നമുക്കുണ്ട് എങ്ങനെയെങ്കിലും നമ്മൾ ഒരു സർക്കിൾ സൃഷ്ടിച്ച് ആ സർഫസ് നീക്കംചെയ്യുന്നു അത്തരത്തിലുള്ളവയെ നമ്മൾ കട്ട് എന്ന് വിളിക്കുന്നു മറ്റ് വസ്തുക്കളും നമ്മൾ മുറിച്ചുമാറ്റിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ കൈവശമുള്ളത് ഒരു സമാനമായ കട്ട് പോലെയാണ് അതിനാൽ ഒരാൾക്ക് ഒരു ഹോൾ പോലുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഒരു ഡ്രിൽ ഹോൾ drill hole ഉണ്ടാക്കാൻ താൽപ്പര്യമുണ്ട് അതിനാൽ ആ ഹോൾ ഓപ്ഷനുകൾ നേരെ ലഭ്യമാണ് കട്ട് പോലുള്ള ഒരു പ്രത്യേക ഫീച്ചർന് കട്ടിന്റെ ആഴം എന്താണ് ആർക്ക് എന്തായിരിക്കണം കാര്യങ്ങൾ ക്ലിക്കുചെയ്യുന്നതിലൂടെ നമ്മൾ നൽകേണ്ട മറ്റ് ഓപ്ഷനുകൾ എന്നിവ പോലുള്ള അധിക ഘടകങ്ങൾ ആവശ്യമാണ് ഫില്ലറ്റ് സർഫസ് എന്ന പേരിൽ ഒരു ഒബ്ജക്റ്റ് കൂടി ഉണ്ട് അതിനാൽ ഇത് ഇതിനകം ഒരു മിനുസമാർന്ന കോണാക്കി മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ആ ആവശ്യത്തിനായി ഓപ്ഷനുകൾ ക്ലിക്കുചെയ്ത് ഒരു ഫില്ലറ്റ് സർഫസ് പോലുള്ള ഒന്ന് നമ്മൾ സൃഷ്ടിക്കുന്നു നമ്മൾ പഠിക്കുമ്പോൾ അത് കാണും അടുത്ത ക്ലാസ്സിൽ നമ്മൾ സോളിഡ് വർക്ക്സ് ചെയ്തു നോക്കാൻ ആരംഭിക്കും അതിനാൽ ഘട്ടം ഘട്ടമായി നമ്മൾ ദീർഘചതുരം ദീർഘവൃത്തം വൃത്തം വളവുകൾ എന്നിവ നിർമ്മിക്കുകയും അത് പുറത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും കൂടാതെ മറ്റ് കാര്യങ്ങളും നമ്മൾ കാണും